ശരീരഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളുടെ അവസാന ആഴ്ചയിലേക്ക് പ്രിയ പങ്കാളികൾക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ നമ്മൾ പാരലാങ്വേജ് ഒരു സംഭാഷണത്തിൽ നിന്ന് വാക്കാലുള്ള ഉള്ളടക്കമോ അർത്ഥമോ കണ്ടെത്തിയതിനുശേഷം അവശേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും പാരലാങ്വേജാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇതിൻറെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭാഷയുടെ ചുറ്റും നിലനിൽക്കുന്ന ആംഗ്യഭാഷ മെറ്റാ കമ്മ്യൂണിക്കേഷന്റെ ഘടകമുണ്ടെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും കാരണം ഓരോ സന്ദേശവും വാക്കുകളുടെ അക്ഷരീയ ധാരണയുമായി ബന്ധപ്പെട്ട അർത്ഥം മാത്രമല്ല ആശയവിനിമയം നടത്തുന്നത് എന്നാൽ അതേ സമയം ഒരു വ്യക്തി അർത്ഥം കൂട്ടുന്നതിനും അതിൽ വികാരങ്ങളും വൈകാരിക വശങ്ങളും ചേർക്കുന്നതിനും വാക്കുകൾ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് പറയാൻ കഴിയും എത്ര തവണ ഉച്ചാരണങ്ങൾ സംഭവിക്കുന്നു ഭാഷ എവിടെയാണ് ഉള്ളടക്കം എന്താണ് അത് നമ്മൾ ഏത് വാക്ക് എങ്ങനെ ഉച്ചരിച്ചു എന്നതിനെ ആസ്പദമാക്കിയാണ് പലപ്പോഴും നമ്മൾ പറയുന്നതെന്താണ് എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതിനാണ് പ്രാധാന്യം 1950 ൽ ഒരു അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനായ ജോർജ്ജ് എൽ ട്രാഗർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ രണ്ട് ആളുകളുമായി സഹകരിച്ചാണ് ജോർജ്ജ് ട്രാഗർ പാരാലിങ്വിസ്റ്റിക്സിനെക്കുറിച്ചുള്ള തന്റെ ധാരണ വികസിപ്പിച്ചെടുത്തത് ട്രാഗർ പാരാ മുതലായവ സന്ദേശത്തിന്റെ ഉള്ളടക്കം പരിഗണിക്കാതെ തന്നെ കൃത്യമായി വിഭജിക്കാൻ കഴിയുന്ന വികാരങ്ങളെ അറിയിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി അവരുടെ കണ്ടെത്തലുകളിൽ വിവിധ ഗവേഷകർ അവരുടെ പഠനത്തിൽ പങ്കെടുക്കുന്നവരോട് ശ്രോതാവിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയോ വികാരമോ ഉളവാക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് അക്ഷരമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഒരു ഭാഷയുടെ അക്ഷരമാലയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഉള്ളടക്കമോ അർത്ഥമോ ഇല്ല അത് ഏത് ഭാഷയുടെയും ഏറ്റവും നിഷ്പക്ഷ ഘടകമാണ് എന്നാൽ ഈ പാരായണത്തിൽ പോലും ഒരു പ്രത്യേക വികാരത്തോടുകൂടിയ ഒരു വായനയുടെ ബന്ധം കൃത്യമായി പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതിനാൽ ഈ തരത്തിലുള്ള ഗവേഷണങ്ങൾ പശ്ചാത്തലത്തെ ഈ ധാരണയിലേക്ക് നയിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പദത്തിന്റെ അർത്ഥം ഒരു പദത്തിന്റെ ലെക്സിക്കൽ അർത്ഥം എന്നിവ ഉപയോഗിച്ച് മാത്രമല്ല സംസാരിക്കുക എന്നാൽ നമ്മൾ ആ വാക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രോജക്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും സിഗ്നലുകൾ കൈമാറുകയും ചെയ്യുന്നു മറ്റ് ആളുകളുടെ ശബ്ദം ശ്രവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റ് വ്യക്തിയുടെ വികാരങ്ങൾ മാത്രമല്ല എളുപ്പത്തിൽ മനസിലാക്കാൻ കഴിയുന്നത് അതേ സമയം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മറ്റ് ചില വശങ്ങളും മനസിലാക്കാൻ കഴിയും വ്യക്തിയുടെ പ്രാദേശിക അസോസിയേഷനുകളും സാമൂഹിക പശ്ചാത്തലങ്ങളും നമുക്ക് മനസിലാക്കാൻ കഴിയും ആ വ്യക്തിയുടെ സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വ്യക്തിയുടെ ജോലിയുടെ വിശാലമായ വിഭാഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ചോ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ബൌദ്ധിക നിലവാരത്തെക്കുറിച്ച് ധാരാളം കണ്ടെത്താനാകും അതുകൊണ്ടാണ് ടെലിഫോണിക് അഭിമുഖങ്ങൾ ഇപ്പോഴും ആളുകളെ നിയമിക്കുന്ന പ്രക്രിയയിലെ ഒരു വിജയകരമായ ഉപകരണമായി കണക്കാക്കുന്നത് സാഹിത്യത്തിൽ നോൺവെർബൽ ആശയവിനിമയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അവബോധം എല്ലായ്പ്പോഴും ഉണ്ട് നമ്മുടെ പാരലാംഗ്വേജ്നെ ഉച്ചാരണത്തിലൂടെ ഡച്ചസായി മാറ്റി തന്റെ സുഹൃത്ത് സർക്കിളിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ശരി എലിസ ഇത് വീണ്ടും പറയുക സ്പെയിനിലെ മഴ പ്രധാനമായും നിരപ്പുള്ള സ്ഥലങ്ങളിലാണ് സ്പെയിനിലെ മഴ പ്രധാനമായും നിരപ്പുള്ള സ്ഥലങ്ങളിലാണ് അത് പറഞ്ഞില്ലേ ഇല്ല എലിസ നിങ്ങൾ അത് പറഞ്ഞില്ല നിങ്ങൾ അത് പോലും അത് പറഞ്ഞിട്ടില്ല എല്ലാ രാത്രിയിലും നിങ്ങൾ കിടക്കയിൽ കയറുന്നതിന് മുമ്പായി നിങ്ങളുടെ പ്രാർത്ഥനകൾ പറയുന്നിടത്ത് നിങ്ങൾ ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്പെയിനിലെ മഴ പ്രധാനമായും നിരപ്പുള്ള സ്ഥലങ്ങളിലാണ് 50 തവണ ശരി ജോർജ്ജ് ഷാ മറ്റൊരു അവസരം നൽകുന്നു ഹൂ നിങ്ങൾ ശരിയായി ഉച്ചരിക്കുമ്പോൾ തീജ്വാല നിശ്ചലമായി തുടരും അങ്ങനെയാണ് നിങ്ങൾ ഈ സമയം ശരിയായി ചെയ്തതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക ഹാർട്ട് ഫുഡിൽ ഹെലിപാഡും ഹാംപ്ഷയർ ചുഴലിക്കാറ്റുകളും ഒരിക്കലും സംഭവിക്കില്ല എനിക്ക് ശേഷം നിങ്ങൾ ആവർത്തിക്കണം ഹാർട്ട് ഫുഡിൽ ഹെലിപാഡും ഹാംപ്ഷയർ ചുഴലിക്കാറ്റുകളും ഒരിക്കലും സംഭവിക്കില്ല ഹാർട്ട് ഫുഡിൽ ഹെലിപാഡും ഹാംപ്ഷയർ ചുഴലിക്കാറ്റുകളും ഒരിക്കലും സംഭവിക്കില്ല ഇല്ല ഇല്ല ഇല്ല എലിസ ഇവിടെ അല്ല അത് പറയരുത് ഇല്ല ദയവായി നിങ്ങൾ ആദ്യം മുതൽ ആരംഭിക്കുക ഇത് ചെയ്യുക ഹ ഹ ഹ ഹാ തുടരുക തുടരുക പശ്ചാത്തലത്തിലുള്ള നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വശങ്ങൾ പാരലാംഗ്വേജ് എങ്ങനെ നിർദ്ദേശിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പാരലാംഗ്വേജ് മനസിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചിഹ്നങ്ങൾ നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് അവയാണ് വോളിയം ഓഫ് വോയിസ് തുടങ്ങിയവ വോളിയം ഓഫ് വോയിസ് നമ്മുടെ വികാരങ്ങൾ കാണിക്കുന്നു അത് ഒരു മൃദുവായ ശബ്ദമോ ഉച്ചത്തിലുള്ള ശബ്ദമോ അല്ലെങ്കിൽ അലറുന്നുണ്ടോ എന്നതിനെ ആസ്പദമാക്കി ബാക്കി വികാരങ്ങളെ കാണിക്കുന്നു അതിനാൽ ഇത് നമ്മുടെ വികാരങ്ങളെയും മനോഭാവങ്ങളെയും ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രതികരണത്തെയും കാണിക്കുന്നു മന്ദഗതിയിലുള്ള ശബ്ദത്തിന് നമ്മുടെ ഭീരുത്വം ആത്മവിശ്വാസമില്ലായ്മ എന്നിവ കാണിക്കാൻ കഴിയും അതുപോലെ തന്നെ ശബ്ദത്തിന്റെ വേഗത നമ്മുടെ മനോഭാവങ്ങളെയും വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു അത് മന്ദഗതിയിലാണെങ്കിൽ അത് നമ്മുടെ മടി തയ്യാറെടുപ്പിന്റെ അഭാവം ദുഃഖം എന്നിവ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ശബ്ദം വേഗതയേറിയതാണെങ്കിൽ അത് നമ്മുടെ മടിയെ എളുപ്പത്തിൽ സൂചിപ്പിക്കും അതുപോലെ നമ്മുടെ സ്വരം ഉച്ചാരണം ഉച്ചാരണത്തിന്റെ വ്യക്തത എന്നിവയും പ്രധാനമാണ് ഈ ഘടകങ്ങളെ കുറിച്ച് അടുത്ത കുറച്ച് സ്ലൈഡുകളിൽ വിശദമായി നോക്കും അതുപോലെ വിരാമചിഹ്നങ്ങൾക്ക് പകരമായി വിരാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യവും പ്രധാനമാണ് ചില വിരാമങ്ങൾ താൽക്കാലികമാകാം അത് നമ്മുടെ അനിശ്ചിതത്വത്തെയും മടിയെയും സൂചിപ്പിക്കാം അതേസമയം ചിലത് സിസുര അല്ലെങ്കിൽ ഡ്രമാറ്റിക് പോസ് പോലെയാകാം അവ ആസൂത്രണം ചെയ്തിരിക്കുന്നതും ഉള്ളടക്കത്തിന്റെ നിയന്ത്രണവും പ്രേക്ഷകരുടെ പ്രതികരണവും നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആഗ്രഹവും കാണിക്കുന്നു നമ്മുടെ ശബ്ദ നിലവാരം പ്രധാനമാണ് അത് സന്ദേശം കൈമാറുകയും അതേ സമയം ഈ സന്ദേശത്തെക്കുറിച്ചുള്ള ധാരണയും ഇത് പൂർത്തിയാക്കുന്നു ഒരു പ്രത്യേക വാക്ക് പറയാൻ നമ്മുടെ ശബ്ദം നമ്മളെ പ്രാപ്തമാക്കുന്നു ഉള്ളടക്കം ഒരു പ്രത്യേക രീതിയിൽ കാണാൻ നമ്മുടെ ശബ്ദം നമ്മളെ പ്രാപ്തമാക്കുന്നു ഒരു പ്രത്യേക കാര്യം നമ്മൾ എങ്ങനെ പറയുന്നുവെന്നത് ശബ്ദം നിയന്ത്രിക്കുന്നു ഒരു ഉച്ചാരണത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ ഇത് പറയപ്പെടുന്നതിന്റെ അർത്ഥത്തെ പരിഷ്ക്കരിക്കുന്നു മാത്രമല്ല ഉച്ചാരണത്തിന്റെ വികാരങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഏകതാനമായ സ്വരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് വിരസമായ ഒരു മനോഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശബ്ദത്തിന് കുറഞ്ഞ വേഗതയും കുറഞ്ഞ പിച്ചും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിഷാദം കാണിക്കുന്നു ഉയർന്ന പിച്ച് സാധാരണയായി ഉത്സാഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉയർന്ന പിച്ച് അതോടൊപ്പം ദീർഘനേരം സംസാരിക്കുന്ന രീതി സ്വീകരിച്ചാൽ അത് അവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ഉയർന്ന സ്വരം ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നുപെട്ടെന്നുള്ള സംഭാഷണം പ്രതിരോധ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ വ്യത്യസ്ത പാരാലിംഗുസ്റ്റിക് സവിശേഷതകൾ മനസിലാക്കാൻ ശബ്ദത്തിന്റെ ഈ വശങ്ങൾ പ്രധാനമാണ് മാത്രമല്ല മുന്നോട്ടു പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്യും പാരലാംഗ്വേജ് നമുക്ക് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനപൂർവ്വം ഉപയോഗിക്കാം മിക്ക സാഹചര്യങ്ങളിലും ഇത് മനപൂർവമല്ലാതെ ആണ് ഉപയോഗിക്കപ്പെടുന്നത് അവിടെ നമ്മുടെ വികാരങ്ങൾ സ്വപ്രേരിതമായി കൈമാറ്റം ചെയ്യപ്പെടുകയും മറ്റ് ആളുകളിലേക്ക് സൂചന നൽകുകയും ചെയ്യുന്നു ആശയവിനിമയത്തെ പരിപൂർണ്ണമാക്കുന്നതിന് ഇത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനപൂർവ്വം ഉപയോഗിക്കാനും കഴിയും ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഒരു സന്ദേശം എങ്ങനെ കൈമാറാം എന്നതും പഠിക്കാം പരാലാംഗ്വേജ്ജിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഒന്നാമതായി ക്വാലറ്റീസ് ക്വാലറ്റീയിൽ വ്യക്തികളെ വേർതിരിക്കുന്ന ശബ്ദത്തിന്റെ സവിശേഷതകൾ ആണ് പിച്ച് വോളിയം അനുരണനം തീവ്രത അല്ലെങ്കിൽ വോളിയം ശബ്ദത്തിന്റെ വ്യാപ്തി വോയ്സ് രജിസ്റ്റർ തുടങ്ങിയവ ഇവയെ വോക്കൽ കോഡുകളുടെ വലുപ്പം ലിംഗഭേദം പ്രായം എന്നിവ അടിസ്ഥാനമാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും വേർതിരിക്കാം ജീവശാസ്ത്രപരവും ശാരീരികവും മനശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകളാൽ ഈ ഗുണങ്ങൾ രൂപപ്പെടുന്നു അടിസ്ഥാനപരമായി ഇത് വെർബൽ ഭാഷയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളായി ആദ്യം കണക്കാക്കപ്പെടുന്ന പ്രാഥമിക ഗുണങ്ങളും ഘടകങ്ങളും പാരാലിംഗുസ്റ്റിക് പ്രതിഭാസങ്ങളായി പരിഷ്ക്കരിക്കുകയോ മാറ്റുകയോ ചെയ്യാം വിവിധ സാങ്കേതിക സംഭവവികാസങ്ങൾക്കിടയിലും ശബ്ദം ആശയവിനിമയത്തിന്റെ പ്രാഥമിക ഉപകരണമായി തുടരുന്നു ശബ്ദത്തിന്റെ അഭാവം നമ്മുടെ പ്രകടനത്തെയും മറ്റ് ആളുകളുമായി പരസ്പരം ബന്ധപ്പെടാനുള്ള കഴിവിനെയും തടസ്സപ്പെടുത്തുന്നു മനുഷ്യ ശബ്ദം അർത്ഥമോ സന്ദേശമോ അറിയിക്കുകയും സംഭാഷണ ഡെലിവറിയുടെ ഏറ്റവും പ്രയാസകരമായ ഘടകങ്ങളുടെ പ്രാധാന്യം ഉയർത്തുകയും ചെയ്യുന്നു അവ ഫലപ്രദമായ സംഭാഷണവും ശബ്ദ മോഡുലേഷനും ആണ് ശബ്ദം കൂടുതൽ വ്യക്തമാകുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമായി അർത്ഥം കൈമാറുന്നു കൂടാതെ സ്പീക്കറുടെ ലിംഗഭേദം പശ്ചാത്തലം വിദ്യാഭ്യാസം പരിശീലനം മനോഭാവം സ്വഭാവം തുടങ്ങിയവയെക്കുറിച്ചും സൂചന നൽകുന്നു നമ്മുടെ ശബ്ദവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകടനം ആവശ്യമുള്ള എല്ലാ തൊഴിലുകളിലും പിച്ച് വ്യതിയാനം സംസാര വേഗത പോസ് വോയ്സ് മോഡുലേഷൻ എന്നിവ ഇതിൽ വിശദമായി ചർച്ച ചെയ്യും ശബ്ദം അതിന്റെ പൂർണ്ണമായ സ്വാഭാവിക സാധ്യതകൾ കണ്ടെത്തുന്നതിന് ആദ്യം ശാരീരിക തലത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ആലാപനം അഭിനയം പ്രൊഫഷണൽ സ്പീക്കിംഗ് തുടങ്ങിയ തൊഴിലുകളിൽ ശബ്ദം പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഭാഷയിൽ ഈ തരത്തിലുള്ള പരിശീലനം ഉൾപ്പെടുത്താത്ത പ്രൊഫഷണലുകളിൽ ഭാഷയുടെ ഈ ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് നാം നോക്കാൻ പോകുന്നത് പിച്ച് ശബ്ദത്തിന്റെ വ്യത്യസ്ത തീവ്രതയെ സൂചിപ്പിക്കുന്നു ഇത് ശ്രോതാവിന് കേൾക്കാൻ കഴിവുള്ളവയെ സൂചിപ്പിക്കുന്നു ഉയർന്നതോ താഴ്ന്നതോ ആയ ടോണൽ സവിശേഷതകൾ ഉയരുന്നതും വീഴുന്നതുമായ ശബ്ദ പാറ്റേണുകൾ തുടങ്ങിയവയാണ് ഇതിൽ ഉള്ളത് മനുഷ്യ ശബ്ദത്തിന്റെ പിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല നമ്മുടെ സംസാരം ഫലപ്രദമാക്കാൻ ഇത് ആവശ്യമാണ് മോണോടോണുകളിൽ സംസാരിക്കുന്ന ആളുകൾ വളരെ ഏകതാനമായ സ്പീക്കറുകളായി കണക്കാക്കപ്പെടുകയും പ്രേക്ഷകർക്ക് അവരിൽ താൽപ്പര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു മോണോടോണിൽ സംസാരിക്കുന്ന ആളുകൾ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു വ്യക്തിക്ക് കുതിച്ചുകയറുന്ന ശബ്ദമുണ്ടാകാം എന്നിരുന്നാലും ഒരു മോണോടോണിൽ സംസാരിച്ചേക്കാം പിച്ച് പിച്ച് വ്യതിയാനങ്ങളോടും സ്വരസൂചക ബന്ധമാണ് ടോണിനു ഉള്ളത് അത് ഒരു വാക്കിന്റെ അർത്ഥത്തെ ബാധിക്കുകയും ഭാഷകളിലുടനീളം വ്യത്യസ്ത ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുകയും പ്രേക്ഷകരുമായി വ്യക്തമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു വാക്കുകളുടെ ഒരൊറ്റ ശ്രേണിക്ക് സംസാരിക്കുന്ന ടോൺ പാറ്റേൺ അനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് നിരന്തരമായ ഉയർന്ന തലത്തിലോ ഉയരുന്ന നിലയിലോ അല്ലെങ്കിൽ താഴുന്ന നിലയിലോ ഇത് നിർമ്മിക്കുകയോ സംസാരിക്കുകയോ ചെയ്താലും പിച്ച് വ്യതിയാനം സ്പീക്കറുടെ ഉദ്ദേശ്യം പ്രകടിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തി ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരിക്കാം മുഖഭാവം നിയന്ത്രണത്തിലായിരിക്കാം ഹാൻഡ്ഷേക്ക് ശക്തമായിരിക്കാം പക്ഷേ ശബ്ദത്തിന് സ്ട്രീമറുകൾ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മവിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ പിരിമുറുക്കമോ സൂചിപ്പിക്കുന്നു ഇൻടോനേഷനും ഇത് ഭാഷാ പരിശീലനത്തിന്റെ ഭാഗമാണ് ഇത് മറ്റുള്ളവരോട് നമ്മുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം സോഷ്യൽ ക്ലാസ് എന്നിവയെക്കുറിച്ച് പറയുന്നു മറുവശത്ത് ഒരു പ്രത്യേക അക്ഷരത്തിലോ ഒരു പ്രത്യേക വാക്കിലോ മനപൂർവമായ സ്ട്രസ്സ് അർത്ഥങ്ങൾ ആശയവിനിമയം ചെയ്യുകയും മറ്റ് വ്യക്തിയോടുള്ള നമ്മുടെ വികാരത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ശബ്ദത്തിന്റെ ടോൺ സ്പീക്കറുടെ മനോഭാവങ്ങളെയും വികാരങ്ങളെയും കുറിച്ച് നമ്മോട് പറയുന്നു എന്നിരുന്നാലും ഈ സിഗ്നലുകൾ എല്ലായ്പ്പോഴും സന്ദേശത്തിന്റെ മൊത്തം സന്ദർഭത്തിന്റെ ഭാഗമായി എടുക്കേണ്ടതാണ് ഒരിക്കലും ഒറ്റപ്പെടുത്തി കാണരുത് ഈ സിഗ്നലുകളും പദങ്ങളും മൊത്തത്തിലുള്ള വാക്യങ്ങളും പരിഗണിക്കണം കൂടാതെ ഒരു ഉച്ചാരണത്തിന്റെ പ്രാധാന്യം പൂർണ്ണമായി വ്യാഖ്യാനിക്കുന്നതിന് വ്യാഖ്യാനത്തെ മറ്റ് ഭൌതിക സവിശേഷതകളുമായി സംയോജിപ്പിക്കുക നമ്മൾ സംസാരിക്കുന്ന വേഗതയും പ്രധാനമാണ് വ്യത്യസ്ത അവസരങ്ങളിൽഅതുപോലെ സന്ദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ വിവരിക്കുമ്പോൾ വ്യത്യസ്ത വേഗതയിൽ സംസാരിക്കുന്നു ഒരു മിനിറ്റിനുള്ളിൽ സംസാരിക്കുന്ന വാക്കുകളുടെ എണ്ണമാണ് വേഗത എന്നു പറയുന്നത് സ്പീക്കറുടെ ശരാശരി വേഗത വളരെ മന്ദഗതിയിലാണെങ്കിൽ ശ്രോതാവ് വിരസനും അക്ഷമനുമായിത്തീരുന്നു മറുവശത്ത് ശരാശരി വേഗത വളരെ വേഗതയുള്ളതാണെങ്കിൽ ശ്രോതാവിന് സന്ദേശം പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ മതിയായ സമയമില്ല അതിനാൽ താൽപര്യം നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ വാക്കുകളുടെ വേഗത അളക്കേണ്ടതുണ്ട് അത് വളരെ വേഗതയിലോ മന്ദഗതിയിലോ ആയിരിക്കരുത് പിച്ചിന്റെ വേഗതയും നമ്മൾ നൽകുന്ന ഉള്ളടക്കവുമായി പല തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഔദ്യോഗിക അവതരണത്തിൽ പോലും ഒരു പൊതുനിയമം എന്ന നിലയിൽ സന്ദേശത്തിന്റെ എളുപ്പമുള്ള ഭാഗങ്ങൾ വേഗത്തിൽ അവതരിപ്പിക്കുകയും വിവരങ്ങളുടെ സങ്കീർണ്ണമായ ഭാഗങ്ങൾ മന്ദഗതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അവതരണത്തിന്റെ ബുദ്ധിമുട്ടുള്ളതോ കൂടുതൽ സാങ്കേതികമോ ആയ ഭാഗത്തെക്കുറിച്ച് മനസിലാക്കാൻ മികച്ച ഗ്രാഹ്യവും കൂടുതൽ ശ്രദ്ധയും ആവശ്യമാണെന്ന് കരുതുന്നതിനാലാണ് ഇത് ഇത് നമ്മുടെ വൈകാരികാവസ്ഥയെയും സൂചിപ്പിക്കുന്നു നമുക്ക് ഉത്കണ്ഠ തോന്നുന്നുണ്ടെങ്കിലോ ആശയവിനിമയ സന്ദേശത്തിൽ ഒരു അടിയന്തിരാവസ്ഥ ഉണ്ടെങ്കിലോ നമ്മൾ വേഗത്തിൽ സംസാരിക്കും മറുവശത്ത് നമ്മൾ വിശ്രമിക്കുമ്പോൾ ഉത്കണ്ഠ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ വേഗതയും സുഖകരമാകും സംസാര നിരക്കിന്റെ സാംസ്കാരിക വശങ്ങളും പ്രകടമാണ് ഇറ്റലിക്കാരുടെയും അറബ് രാജ്യത്തെ ജനങ്ങളുടെയും വേഗതയെക്കുറിച്ച് ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യുഎസിലെ ആളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവർ വേഗത്തിൽ സംസാരിക്കുന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഒരേ രാജ്യത്ത് ആളുകൾ സംസാരിക്കുന്ന രീതിയിലും പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആളുകൾക്ക് സംസാരത്തിൽ വേഗത ഉണ്ടെന്നും മറ്റുചില ഭാഗങ്ങളിൽ ആളുകൾ മന്ദഗതി സ്വീകരിച്ചേക്കാം സംഭാഷണ നിരക്കിലെ വ്യത്യാസം ഉദ്ദേശിച്ച സന്ദേശം മനസിലാക്കുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതിനാൽ വേഗത എല്ലായ്പ്പോഴും പ്രേക്ഷകരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്പീക്കർ വേഗതയിൽ വ്യതിയാനങ്ങൾ വരുത്തുകയും വേണം നമ്മുടെ സന്ദേശങ്ങൾ നമ്മൾ എങ്ങനെ കൈമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാരലാംഗ്വേജ് ആളുകളുമായി വ്യത്യസ്ത സന്ദേശങ്ങൾ ആശയവിനിമയം നടത്തുന്നു ഈ പാരാലിങ്വിസ്റ്റിക് സവിശേഷതകളുടെ ഉദാഹരണങ്ങൾ പ്രത്യേകിച്ച് പിച്ച് ടോൺ എന്നിവ പ്രശസ്ത അമേരിക്കൻ സിറ്റ്കോം ചങ്ങാതിമാരിൽ ഇവിടെ കാണാൻ കഴിയും ഇവിടെ അവ ഉല്ലാസകരമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരാണ് എങ്കിൽ എനിക്കും സന്തോഷമുണ്ട് എനിക്ക് സുഖമാണ് ശരിക്കും തീർച്ചയായും എനിക്ക് സുഖമാണ് തീർത്തും സുഖമാണ് എന്തുകൊണ്ടാണ് ഇത് ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്നതെന്ന് എനിക്കറിയില്ല കാരണം ശരിക്കും എനിക്ക് സുഖമാണ് ജോ നിങ്ങൾ വീട്ടിൽ പോയി നോക്കൂ എനിക്ക് അൺപാക്ക് ചെയ്യേണ്ട ഒരു പെട്ടി ഇപ്പോഴും ഉണ്ട് എൻറെ ദൈവമേ എൻറെ ദൈവമേ നിങ്ങൾ എനിക്ക് ഒരു ഹൃദയാഘാതം തന്നു എന്റെ ഉത്തമസുഹൃത്തും സഹോദരിയും എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ക്ഷമിക്കണം അത് ശരിയാണെങ്കിൽ ഞാനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്റെ ഉറ്റ ചങ്ങാതി എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുമ്പത്തെ വീഡിയോ പാരലംഗേജുമായി ബന്ധപ്പെട്ട ഉല്ലാസകരമായ വശങ്ങൾ കാണിച്ചുവെങ്കിൽ നിലവിലെ വീഡിയോ ഗൌരവമായി ആണു ഇതിനെ സൂചിപ്പിക്കുന്നത് ടോൺ പിച്ച് റിഥം പിച്ച് വോയ്സ് എന്നിവ വലിയ ആൾക്കൂട്ടവും ആയി ആശയവിനിമയം നടത്തേണ്ട ആളുകളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ് പൂർണ്ണമായ വീഡിയോ കേൾക്കുന്നതിന് തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ വീഡിയോയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അത് ടോണും പിച്ചും ആണ് മാറ്റത്തിനും അതിലേറെ കാര്യങ്ങൾക്കും ഇടയിൽ നമ്മൾ തിരഞ്ഞെടുക്കണം അതിന്റെ വേഗത പുറകോട്ട് നോക്കുന്നതിനും മുന്നോട്ട് നോക്കുന്നതിനും ഇടയിൽ നമ്മൾ തിരഞ്ഞെടുക്കണം ഒപ്പം താളം നമ്മുടെ ഭാവിക്കും ഭൂതകാലത്തിനും ഇടയിൽ നാം തിരഞ്ഞെടുക്കണം ബരാക് ഒബാമയുടെ ശബ്ദം വളരെ സ്വാഭാവികമാണ് പക്ഷേ മിക്ക രാഷ്ട്രീയക്കാരും വോട്ടർമാരെ ആകർഷിക്കുന്ന ശബ്ദം നേടാൻ വളരെ കഠിനമായി പരിശ്രമിക്കുന്നു എതിർക്കുന്ന പദം ശരീരഭാഷ പ്രത്യേകിച്ച് ശബ്ദവും സ്വരവും നിങ്ങൾ എത്രമാത്രം ആശയവിനിമയം നടത്തുന്നു എന്നതിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നു സാധാരണയായി ആളുകൾ വാക്കുകൾ ഉയർത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുമ്പോൾ അവർ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം ലഭിച്ചവരാണ് അതിനാൽ വേരിയൻറ് അനുസരിച്ച് ഏറ്റവും മുകളിലുള്ള മിക്ക രാഷ്ട്രീയക്കാർക്കും അവിടെ ശരീരഭാഷയെക്കുറിച്ചും പ്രത്യേകിച്ച് അവരുടെ ശബ്ദങ്ങൾ എത്ര ആഴത്തിലുള്ളതാണെന്നും അത് എത്രത്തോളം വികസിക്കുന്നുവെന്നും മന്ദഗതിയിലാണ് എന്നതിനെ കുറിച്ച് സംസാരിക്കും ഇപ്പോൾ വ്യക്തിപരമായി അവർക്ക് ആശയങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അവ മോശം ആശയങ്ങളായിരുന്നു അവ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മോശം ആശയങ്ങളായിരുന്നു പുരുഷ രാഷ്ട്രീയക്കാരെ മറികടക്കാൻ സ്ത്രീ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ തടസ്സങ്ങളുണ്ട് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർ വളരെ വികാരാധീനരാണെന്ന് നമ്മൾ കരുതുന്നു പാരാലിംഗുസ്റ്റിക് സവിശേഷതകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പോസ് എന്നതാണ് സംസാരിക്കുന്ന വേഗതയ്ക്കൊപ്പം നിരവധി താൽക്കാലിക വിരാമങ്ങളുമുണ്ട് ഇവ അറിഞ്ഞുകൊണ്ട് ഉണ്ടാകുന്നതല്ല 'ആആആ' 'മ്മ മ്മ' മുതലായവ പോലെ അടുത്തതായി സംസാരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അനിയന്ത്രിതമായ താൽക്കാലിക വിരാമങ്ങൾ വരുന്നു അത് നമ്മുടെ സംഭാഷണത്തിന്റെ സ്വാധീനം നശിപ്പിക്കും മനപൂർവവും ശരിയായ സമയത്ത് ആസൂത്രിതമായ താൽക്കാലികത്തിന്റെ ഭാഗവുമായ പോസുകൾ സംഭാഷണത്തിന്റെ മൊത്തത്തിലുള്ള സ്വാധീനവും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു അവ സിസുര പോലുള്ള ഡ്രമാറ്റിക് പോസുകൾ പോലെയാണ് മുറിക്കുന്നതിനുള്ള ഒരു ലാറ്റിൻ പദമാണ് സിസുര ഇത് ഒരു ഇടവേള വ്യാകരണ അതിർത്തി ഒരു വിരാമം എന്നിവ സൂചിപ്പിക്കുന്നു സൈലൻറ് പോസ് നിർദ്ദേശിക്കാൻ സംഗീതത്തിലും സിസുര എന്ന പദം ഉപയോഗിക്കുന്നു സിസുര പലപ്പോഴും കവിതയിൽ ഉപയോഗിക്കുന്നു വളരെ രസകരമായ ഒരു ഉദാഹരണം "സിങ്ങ് എ സോങ്ങ് ഓഫ് സിക്സ് പെൻസ് എ പോക്കറ്റ് ഫുൾ ഓഫ് റൈ ഫോർ ആൻഡ് ട്വൻറി ബ്ലാക്ക്ബേർഡ്സ് ബേക്ക്ഡ് ഇൻ എ പൈ " ഔപചാരിക സംഭാഷണത്തിലും ശരിയായ പോസ് അവതരിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിനെ ഇത് സൂചിപ്പിക്കുന്നതായി കാണാം അത് സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം സ്വീകരിക്കാൻ പ്രേക്ഷകരെ സജ്ജമാക്കുന്നു താൽക്കാലികമായി നിർത്താതെ നമുക്ക് ഒരിക്കലും തുടർച്ചയായി സംസാരിക്കാൻ കഴിയില്ല ആസൂത്രിതമായ ഒരു പോസിൻറെ സഹായത്തോടെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് ഊന്നൽ നൽകാൻ കഴിയും അത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നമ്മളെ പ്രാപ്തമാക്കും ഒരു സംഭാഷണത്തിനിടയിൽ മനപൂർവ്വമല്ലാത്ത താൽക്കാലിക പോസുകൾ അനിയന്ത്രിതമായ താൽക്കാലിക പോസുകൾ അഥവാ നോൺ ഫ്ലൂവെൻസിസ് എന്ന് അറിയപ്പെടുന്നവ പലപ്പോഴും ശബ്ദങ്ങളും ഉച്ചാരണങ്ങളും 'ഓ' 'ഉം' മുതലായവ ഉപയോഗിച്ച് ഉൾപ്പെടുത്തുന്നു ഈ നോൺ ഫ്ലുവൻസികൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുന്നത് സ്പീക്കറുടെ ചാരുത വർദ്ധിപ്പിക്കുകയും വിശ്രമിക്കാൻ ഒരു സമയം നൽകുകയും ചെയ്യും എന്നാൽ ഇവ എല്ലായ്പ്പോഴും ആസൂത്രണം ചെയ്യപ്പെടണം ചിലപ്പോൾ ഒരു നല്ല പ്രഭാഷകന് അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ സ്വയം പരിശീലിപ്പിക്കാനും കഴിയും ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയുടെ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത എല്ലാ അദ്ധ്യാപകരും മനപൂർവ്വം അത് അവതരിപ്പിക്കും അങ്ങനെ അവർ ഈ നോൺ ഫ്ലുവൻസികൾ ഉപയോഗിച്ച് കേൾക്കുന്നത് തുടരും ഇത് ആസൂത്രണം ചെയ്യാൻ അവർക്ക് സമയം നൽകും പൊതുവേ പോസ് ഒരിക്കലും ആകസ്മികമാകരുത് അത് എല്ലായ്പ്പോഴും ഒരു പ്രൊഫഷണൽ സംഭാഷണത്തിലെ ശ്രദ്ധാപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരിക്കണം ആസൂത്രിതമായ പോസുകളുടെ പ്രവർത്തനം ആസൂത്രിതമായ പോസുകൾ ഉപയോഗിക്കാവുന്ന വിവിധ വഴികൾ എന്നിവയെ കുറിച്ച് ഈ പ്രത്യേക വിഷ്വലിൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു ബിൽഡ് അപ്പും സസ്പെൻസും അതിനെ തുടർന്നുള്ള വാക്കിനെയോ വാക്യത്തെയോ ഊന്നിപ്പറയുന്നു പ്രത്യേകിച്ചും ശ്രോതാവിന് ഈ വാക്ക് സ്വാംശീകരിക്കാൻ സമയം നൽകുന്നു അവ പ്രൊജക്റ്റ് ചെയ്ത വികാരത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചിന്തയുടെ തുടർച്ച വരുത്തുകയും ചെയ്യുന്നു ഇത് ശ്രോതാക്കളെ ബോറടിപ്പിക്കുന്നു സന്ദേശത്തിന്റെ വ്യക്തമായ ആശയവിനിമയത്തിന് വോയ്സ് മോഡുലേഷൻ അല്ലെങ്കിൽ തരംഗദൈർഘ്യം പ്രധാനമാണ് പൊതുവേ പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ഉച്ചത്തിൽ സംസാരിക്കണം എന്നതാണ് പറയുന്നത് വലിയ ഒത്തുചേരലുകളിൽ മൈക്ക് ഉപയോഗിക്കേണ്ടിവരുമ്പോൾ അത് ശരിയായി ഉപയോഗിക്കാനുള്ള സാങ്കേതിക കഴിവ് ഉണ്ടായിരിക്കണം മൈക്ക് ഉപയോഗിക്കുമ്പോഴും അല്ലാതെയും നമ്മുടെ ശബ്ദത്തിന്റെ ലൌഡ്നസ് പ്രേക്ഷകരുടെ വലുപ്പവുമായി ക്രമീകരിക്കണം കൂടാതെ പ്രേക്ഷകരുടെ താൽപ്പര്യം നിലനിർത്തുന്നതിന് ശബ്ദം ഉത്സാഹത്തോടെ ആയിരിക്കണം കാരണം ഒരു ആവേശകരമായ ശബ്ദം മാത്രമേ പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ താൽപ്പര്യവും ആവേശവും അറിയിക്കുകയുള്ളൂ ചെറിയ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ചും ഡയാഡിക് സംഭാഷണങ്ങളിൽ ഞങ്ങൾ ശബ്ദ മോഡുലേഷനുകൾ വലുതാക്കി കാണിക്കേണ്ടതില്ല കാരണം ഇത് എളുപ്പത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും വർദ്ധിച്ച വോളിയം സാധാരണയായി കോപാകുലനായ വ്യക്തിയെ സൂചിപ്പിക്കുന്നു മറുവശത്ത് മിതമായ വോളിയം മികച്ച സഹാനുഭൂതിയെ സൂചിപ്പിക്കുന്നു സംസാരിക്കാനും കേൾക്കാനും ചർച്ച ചെയ്യാനുമുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു സംഭാഷണ നിരക്ക് വർദ്ധിക്കുന്നത് സ്പീക്കറുടെ ഭാഗത്തു നിന്നുള്ള തിരക്കിനെയോ അക്ഷമയെയോ സൂചിപ്പിക്കാം അതേസമയം നിരക്ക് കുറയുന്നത് പ്രതിഫലന മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ വോളിയത്തിന്റെ ലൌഡ്നസ് അതായത് മൃദുവായ ശബ്ദവും ഉച്ചത്തിലുള്ള ശബ്ദവും മുഖത്തിന്റെ പേശികളിലെ പിരിമുറുക്കവും ആന്തരിക പേശി പരിശ്രമവുമായി തികച്ചും യോജിക്കുന്ന ഒരു ആംഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് സോഫ്റ്റ് കംപാഷനേറ്റ് ആപ്പികോ ആൽവിയോളാർ വോളിയം ഓഫ് സ്പീച്ചിലുള്ള നടത്തിയ ഗവേഷണത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു മിഡിൽ ഈസ്റ്റേൺ ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവർ അതിനെ ശക്തിയോടും ആത്മാർത്ഥതയോടും ബന്ധപ്പെടുത്തുന്നതിനാൽ ആണ് അവർക് മൃദുവായി സംസാരിക്കുന്നത് ബലഹീനതയുടെയോ ആത്മാർത്ഥതയുടെയോ ഒരു ഭാവം ആണ് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഒരു കമാൻഡിംഗ് ടോൺ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് ജർമ്മൻകാർക്കും തോന്നുന്നു കാരണം ഇത് ആത്മവിശ്വാസത്തിന് തുല്യമായിരിക്കും എന്നാണു ഈ ഗവേഷണത്തിൽ പറയുന്നത് മറുവശത്ത് ഫിലിപ്പൈൻസിൽ നിന്നുള്ളവർ മൃദുവായി സംസാരിക്കുകയും വിദ്യാഭ്യാസത്തോടും നല്ല പെരുമാറ്റത്തോടും മൃദുവായ സംസാരത്തെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു ജാപ്പനീസ് ആളുകൾ മൃദുവായ ശബ്ദം ഉപയോഗിക്കുന്നത് നല്ല പെരുമാറ്റത്തിൻറെ വ്യാഖ്യാനമായി കാണുന്നു കൂടാതെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഒരു വ്യക്തിക്ക് ആത്മനിയന്ത്രണം ഇല്ലെന്ന് അവർ കരുതുന്നു നഗര ഗവേഷകർ ഒരാളുടെ വോളിയം ഓഫ് സ്പീച്ച് അയാൾ അധികകാലം താമസിക്കുന്ന നഗരത്തിൻറെ സാന്ദ്രതയാൽ നിർണ്ണയിക്കപ്പെടുന്നു എന്നും കണ്ടെത്തി ജീവിതകാലം ഒരു കുറഞ്ഞ സാന്ദ്രതയിൽ ചെലവഴിച്ച ഒരു വ്യക്തി താരതമ്യേന കുറഞ്ഞ വോളിയം ഉപയോഗിക്കും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഒരു ജീവിതകാലം ചെലവഴിച്ച ഒരു വ്യക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനസംഖ്യ കുറവുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉയർന്ന വോളിയം ഉപയോഗിക്കുന്ന പ്രവണത കാണിക്കുന്നു നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു ഘടകം മോഡിഫയറുകളാണ്

പ്രത്യേക ആവശ്യങ്ങൾക്കായി അവർ അവരുടെ ശബ്ദങ്ങളിൽ വളരെയധികം വ്യതിയാനങ്ങൾ അവതരിപ്പിക്കുന്നു ഈ മേഖലയിലെ ഗണ്യമായ അളവിലുള്ള ഗവേഷണങ്ങൾ ക്രിയാത്മക ശബ്ദം ശ്വസിക്കുന്ന ശബ്ദം പരുഷത തുടങ്ങിയ പദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തരാക്കി ഈ വാക്കുകൾ നേരത്തെ ഒരു പുതപ്പ് രീതിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ ഈ പദങ്ങളുടെ മികച്ച ഗ്രാഹ്യത്തിനും അർത്ഥത്തിനും നമ്മളെ പ്രാപ്തമാക്കി ലാറിഞ്ചിയലൈസ്ഡ് പോലെയുള്ള ഒരു ക്വാളിറ്റി കാണിക്കുന്നു ഇത് ചില ഭാഷകളിൽ സ്വരസൂചകമാണ് എന്നാൽ ഇത്തരം ശബ്ദങ്ങൾ ശാരീരിക പരിശ്രമം വേദന വാർദ്ധക്യം എന്നിവ കാരണം അനിയന്ത്രിതമായി ഉണ്ടാകുന്നതിനു പുറമേ ഒരു മനോഭാവത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇതിന് വിരസമായ വിമുഖത പ്രകടിപ്പിക്കാം "ഓ ഇപ്പോൾ അല്ല" അല്ലെങ്കിൽ "നിങ്ങൾക്ക് എങ്ങനെ കഴിയും" എന്ന അടിച്ചമർത്തൽ വാത്സല്യപൂർണ്ണമായ ആദരവും സഹാനുഭൂതിയും "ആ രസമുള്ള പൂച്ചക്കുട്ടിയെ നോക്കൂ" എന്ന് നിർദ്ദേശിക്കാനും മുതിർന്നവരെ പ്രേരിപ്പിക്കുന്നു വാത്സല്യമോ ശിശുത്വമോ ആയ ശബ്ദത്തെ ക്രീക്കി ശബ്ദങ്ങൾ എന്നറിയപ്പെടുന്നു അമേരിക്കൻ നടൻ വിൻസെന്റ് പ്രൈസ് ഭയാനകമായ നിമിഷങ്ങളിൽ മികച്ച ക്രീക്കി ശബ്ദം ഉപയോഗിക്കുന്നതിന് പേരുകേട്ടതാണ് ഇത് എല്ലായ്പ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകർ പരാമർശിക്കുന്നു ബ്രീത്തി വോയിസ് വികാരാധീനമായ സംഭാഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയോ തെറ്റോ ഇത് ശ്വാസത്തിന്റെയും ശബ്ദത്തിന്റെയും മിശ്രിതം പോലെയുള്ള ഒരു നെടുവീർപ്പാണ് അത് പൂർണ്ണമായ ശബ്ദമല്ല സുഗന്ധദ്രവ്യങ്ങളുടെ വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള ടിവി പരസ്യങ്ങളിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നു ഉദാഹരണത്തിന് തുണികളുടെ മൃദുത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉള്ള പരസ്യങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രതികരണങ്ങളുള്ള ഏതെങ്കിലും പരസ്യങ്ങളിലോ ഇത് കേൾക്കാൻ സാധിക്കും "ഐ ലവ് യു" എന്ന നെടുവീർപ്പിന്റെ ശ്വസന ഘട്ടത്തിൽ ഇത് പലപ്പോഴും ഉൽപാദിപ്പിക്കപ്പെടുന്നു ബുദ്ധിമുട്ടുള്ള തീരുമാനമോ ചോദ്യമോ നേരിടുന്ന സാഹചര്യങ്ങളിലും ക്ഷീണത്തിന്റെ സാഹചര്യങ്ങളിലും ഇത് ദൃശ്യമാകുന്നു ഈ സാഹചര്യങ്ങളിൽ ഇത് പലപ്പോഴും ഒരു പ്രത്യേക വിസ്പറിനെസ് ആയി കൂടിച്ചേർന്നതാണ് ബ്രീത്തി വോയിസ്ന് പേരുകേട്ട മെർലിൻ മൺറോ ആണ് ഇവിടുത്തെ ഉദാഹരണം കാഠിന്യം ഒരു വിയോജിപ്പുള്ള പരുക്കൻ ശബ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ലാറിൻജിയൽ ബുദ്ധിമുട്ടും പിരിമുറുക്കവും അങ്ങേയറ്റത്തെ വോക്കൽ ഫോൾഡ് സമ്പർക്കം ക്രമരഹിതമായ വൈബ്രേഷൻ കുറഞ്ഞ പിച്ച് എന്നിവ മൂലമാണ് ഭാഷകളിൽ സമാനമായ പര്യായങ്ങൾ ഇതിനുണ്ട് ഉദാഹരണത്തിന് ഗ്രേറ്റിംഗ് വോയ്സ് തുടങ്ങിയവ ഇത് നെഗറ്റീവ് മനോഭാവങ്ങൾക്ക് കൂടുതൽ അർത്ഥം നൽകുന്നു കോപം പരിഹസിക്കൽ പോലുള്ള വികാരങ്ങൾക്ക് അർഥം നൽകുന്നു കൂടാതെ അക്രമാസക്തമായ വികാരങ്ങൾ വെർബൽ ഭാഷകളിലേക്കോ അല്ലെങ്കിൽ പാരാലിംഗുസ്റ്റിക് ഇതരമാർഗങ്ങളിലേക്കോ നൽകുന്നു ഒരു ഹസ്കി ശബ്ദം വരണ്ടതും പരുഷവും ആണ് ചില സന്ദർഭങ്ങളിൽ ഇത് ചില സ്ത്രീകളുടെ പശ്ചാത്തലത്തിൽ മോഹിപ്പിക്കുന്ന ഇന്ദ്രിയസ്വഭാവമുള്ളതാണെന്നും മനസ്സിലാക്കാം എന്നിരുന്നാലും പുരുഷാധിപത്യ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ മാനിഷ് ആയി വിഭജിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു നെഗറ്റീവ് ഗുണമായി കണക്കാക്കുന്നു പ്രായോഗിക ആവശ്യങ്ങൾക്കായി ഇത് കൂടുതൽ സാധാരണ ആഴത്തിലുള്ള മൃദുവായ അല്ലെങ്കിൽ വിസ്പറി ശബ്ദവുമായി ബന്ധപ്പെടുത്താം ഹോർസ് ശബ്ദത്തിന്റെ പാത്തോളജിക്കൽ രൂപങ്ങളിൽ പരുക്കൻ ശബ്ദം സാധാരണയായി പ്രയോഗിക്കുന്നു മോശം പ്രവർത്തനത്തിലൂടെയോ സ്പീക്കറുടെ മോശം ആരോഗ്യ ഇമേജിലൂടെയോ നെഗറ്റീവ് പ്രവർത്തനങ്ങളിലൂടെ നേടിയ ഒരു ഗുണനിലവാരത്തെ ഇത് സൂചിപ്പിക്കുന്നതായി തോന്നുന്നു സ്വതന്ത്രമായി സംഭവിക്കുന്ന വാക്കാലുള്ള ഉച്ചാരണങ്ങളുടെ വ്യതിയാനങ്ങളാണ് ഡിഫറെൻസിയേഷൻ മൃദുവായ ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദം കരച്ചിൽ ചിരി പരാതികൾ തുടങ്ങിയവയാണ് എന്നാൽ ഇവയ്ക്കു വിവിധ പര്യായങ്ങൾ ഉണ്ട് ഡിഫറൻഷിയേറ്ററുകൾക്കായി എടുത്തേക്കാവുന്ന ചില പരിഷ്ക്കരിക്കുന്ന ഘടകങ്ങൾ കണ്ടീഷനിംഗ് പശ്ചാത്തലം മൂലമാണ് അവ അവഗണിക്കരുത് ഉദാഹരണത്തിന് ഒരു വ്യക്തി വായിൽ പൈപ്പ് ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ശബ്ദ നിലവാരത്തിന് ആരോഗ്യപരമായ ചില കാരണങ്ങളുണ്ടാകാം വാക്കാലുള്ള ഉച്ചാരണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി സംഭവിക്കുന്ന ശബ്ദങ്ങളെ ഓൾട്ടർനേറ്റ്സ് ക്ലിക്കുകൾ ശ്വസനം ശ്വാസോച്ഛ്വാസം എന്നിങ്ങനെ വിവരിക്കാം സാധാരണയായി ഇൻഗ്രസീവ് ശബ്ദങ്ങൾ പാരാലിംഗുസ്റ്റിക് ഓൾട്ടർനേറ്റ്സ് ആയി കാണപ്പെടുന്നു ഉദാഹരണത്തിന് ഭീകരതയെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ശാരീരിക വേദന സ്വമേധയാ ഉള്ള വശങ്ങളും 'ഉഫ്' എന്ന ശബ്ദത്തിൽ ദൃശ്യമാണ് ഉദാഹരണത്തിന് സ്വമേധയാ നാവ് അക്ഷമയിൽ ക്ലിക്കു ചെയ്യുകയും സ്വമേധയാ പ്രതികരിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒരാൾക്ക് പരിക്കേറ്റാൽ ബോധമുള്ളവർ ആയിരിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായും അബോധാവസ്ഥയിൽ ആയിരിക്കാം എന്നിരുന്നാലും അവർ ഓ ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു മിക്കതും ഒറ്റ ശബ്ദം ആണെങ്കിലും ചിലത് പൂഹ് ബൂ ടിസ് ടിസെ തുടങ്ങിയവ പോലുള്ള സ്വരസൂചക ശബ്ദങ്ങളിലേക്ക് ആവിഷ്കരിക്കപ്പെടുന്നു മറ്റു പലതും വ്യക്തമായ ഉച്ചാരണമൊന്നും കാണിക്കുന്നില്ല പ്രധാനമായും കേൾക്കാവുന്ന വായു സംഘർഷങ്ങളായ സ്നിഫിൾ ആകാം ഓൾട്ടർനേറ്റ്സ് ശരിയായ ഭാഷാപരമായ ഘടനയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിലും ചിരി പോലുള്ള വ്യത്യാസങ്ങൾ പ്രാഥമിക ഗുണങ്ങളും അതിനെ വികലമാക്കുന്ന യോഗ്യതകളുമായി സംയോജിപ്പിച്ച് സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു അവ മനശാസ്ത്രപരമായ അവസ്ഥകളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പക്ഷേ എല്ലായ്പ്പോഴും സാർവത്രികമല്ല ഉദാഹരണത്തിന് സ്പാനിഷിൽ നമുക്ക് 'ഏയ് എന്നും ഇംഗ്ലീഷിൽ ഒരേ പ്രതിഭാസങ്ങൾക്ക് ഔച്ച് എന്നും പറയാം അതിനാൽ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഒരു പ്രധാന വശമാണ് പാരലാംഗ്വേജ് എന്ന് പറയാം ഇത് നമ്മുടെ വികാരങ്ങൾ മാനസികാവസ്ഥകൾ പശ്ചാത്തലം മുതലായവയെക്കുറിച്ച് ശ്രോതാവിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നു ഭാഷ ഒരിക്കലും ഒരു നിഷ്പക്ഷ സാധനമല്ല ഭാഷയ്ക്ക് ഉണ്ടായിരിക്കാവുന്ന വിവിധ മാനങ്ങളിലേക്ക് പാരലാംഗ്വേജ് നമ്മെ സംവേദനക്ഷമമാക്കുന്നു